എന്റെ ശരീരത്തിൽ തെർമോ ഇലക്ട്രിക് ജനറേറ്ററിന്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിരുന്നു കുറച്ചുകൂടി ചൂട് സൃഷ്ടിക്കാൻ ഞാൻ റമ്പ് ചെയ്യുകയാണ് അതിനു ശേഷം ഞങ്ങൾ അത് മെഷർ ചെയ്തു ഇത് വളരെ ഉയർന്ന വോൾട്ടേജാണ് തന്നത് എന്താണ് ഇതിനർത്ഥം ശരീര താപത്തിൽ നിന്നും ആംബിയന്റിൽ നിന്നും നിങ്ങൾക്ക് താപനില വ്യത്യാസങ്ങൾ നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് ലഭിക്കും ഫോട്ടോവോൾട്ടെയ്ക്ക് സിസ്റ്റങ്ങളുമായി ഇത് എങ്ങനെ താരതമ്യം ചെയ്യും പവർ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ 30 മുതൽ 50 മടങ്ങ് വരെ ഉയർന്നതാണെന്ന് ഞാൻ പറയും എന്നാൽ തെർമോ ഇലക്ട്രിക് ജനറേറ്റർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലും നൽകാനും ധാരാളം പാരഫെർനാലിയ സർക്യൂട്ടുകളും ധാരാളം ക്രമീകരണങ്ങളും ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഒരു നല്ല ആപ്ലിക്കേഷൻ കണ്ടെത്തുകയാണെങ്കിൽ ഇതാണ് മികച്ച സ്ഥലം നിങ്ങളുടെ സർക്യൂട്ട് പരീക്ഷിക്കാൻ ഏറ്റവും മികച്ച എനർജി ഹാർവെസ്റ്ററാണിത് ഒരു നല്ല ആപ്ലിക്കേഷനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നിങ്ങളുടെ ഗാർഹിക ഗീസർ കണ്ടെത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് കരുതുക വെള്ളം ചൂടാകുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ടേറ്റ ശേഖരിക്കാൻ കഴിയുമെന്ന് കരുതുക സിസ്റ്റം ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും ഈ ഘട്ടത്തിൽ ഇത് നിങ്ങൾക്ക് സകല്പിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻലെറ്റ് തണുത്തതാണ് ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് ചൂടുവെള്ളമുണ്ട് നിങ്ങൾ അത് ഗീസറിൽ സൂക്ഷിച്ചു ഈ താപനില ഹാർവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ടി ജിയുടെ ഒരു വശമാണ് ഞങ്ങളുടെ കൈയിൽ ഉണ്ടായിരുന്ന ഒന്ന് കാണാൻ നിങ്ങൾ ഇത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചൂടുള്ള വശമുണ്ട് മറ്റേത് തണുപ്പുള്ളതും ഇത് കട്ടിയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഗീസറിന്റെ ചില നിർണ്ണായക പാരാമീറ്ററുകൾ അളക്കുന്നതിന് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് താപനില സെൻസർ ഇടുന്നതിലൂടെ ജലത്തിന്റെ താപനില തന്നെ അളക്കാൻ കഴിയും നിങ്ങൾ TEG എടുക്കുക തുടർന്ന് അത് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുക നിങ്ങൾക്ക് ലഭിക്കേണ്ട Vout 3 3 വോൾട്ട് ആയിരിക്കും കാരണം ഇത് കൂടുതൽ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുകയും നിങ്ങൾക്ക് ഗ്രൌണ്ട് ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇത് തെർമിസ്റ്റർ ഉള്ള ചില സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് ഒരു തെർമിസ്റ്ററാണ് ഇത് ഒരുതരം എസ്ഒസിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിന് കുറച്ച് ആശയവിനിമയ ശേഷിയും മൈക്രോകൺട്രോളറും ഉണ്ട് ഇത് ചില എഡിസി പോർട്ട് കണക്റ്ററാണ് ഈ TEG ഒരു പവർ സപ്ലൈ പോലെയാണ് നിങ്ങൾക്ക് താപനില ഡിഫറൻഷ്യൽ ഉള്ളിടത്തോളം അത് റൂം താപനില എന്ന് പറയാം അത് 25 ഡിഗ്രി സെൽഷ്യസ് എന്നെടുക്കാം വെള്ളം തിളച്ചുമറിയുകയും അത് 50 ഡിഗ്രി വരെ ഉയരുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഉപരിതലവുമായി സമ്പർക്കം പുലർത്താൻ കഴിയും ഒരുപക്ഷേ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ താപനില വ്യത്യാസമുണ്ട് അതായത് 25 പോലുള്ള ഒന്ന് നിലനിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്ര നല്ല പവർ ലഭിക്കും എത്ര പവർ എന്നതാണ് ചോദ്യം വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണിത് നമുക്ക് എത്രത്തോളം പവർ ലഭിക്കും നമുക്ക് ഇത് എന്തുചെയ്യാൻ കഴിയും ബാറ്ററിയോ മറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ഈ തെർമിസ്റ്റർ റൺ ചെയ്യാൻ കഴിയും അത് ഈ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് ചെയ്യാം ഇത് അടിസ്ഥാനപരമായി പവർ കണ്ടീഷനിംഗ് ഇലക്ട്രോണിക്സ് ആണ് ഈ പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ പട്ടിക പ്രകാരം നൽകുന്നു തുടർന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഈ താപനില വ്യത്യാസം സ്ഥിരമായി നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് പ്രവർത്തിക്കും ഈ താപനില വ്യത്യാസം തുടർച്ചയായി എങ്ങനെ നിലനിർത്താം എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി ഞാൻ പറഞ്ഞത് വളരെ നല്ല പരിഹാരമാണ് നിങ്ങൾക്ക് അത് പിൻവലിക്കാൻ കഴിയും നിങ്ങൾ ആംബിയന്റിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തണുത്ത വശം അപര്യാപ്തമാണ് ആംബിയന്റ് എന്ന് പറയുമ്പോൾ അത് ആംബിയന്റിൽ സൂക്ഷിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം വളരെ വേഗം ചൂടുള്ള വശത്തെ ചൂട് ഫ്ലോ ചെയ്യുന്നു കാരണം ചൂടുള്ള ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്ക് ചൂട് പോകുന്നു നിങ്ങൾ ഈ 50 വേഗത്തിൽ ഇവിടെയെത്തും ഇത് നിങ്ങൾക്കായി ഒരു പ്രശ്നം സൃഷ്ടിക്കും അതിനാൽ പകരം 25 ഡിഗ്രി ആംബിയന്റിൽ ഇത് നിലനിർത്താൻ പര്യാപ്തമല്ല നിങ്ങൾ ഇത് വാട്ടർ ഫ്ലോ പൈപ്പുമായി സമ്പർക്കം പുലർത്തേണ്ടതായി വന്നേക്കാം നിങ്ങൾക്ക് ഒരു വാട്ടർ പൈപ്പ് ഉണ്ടെന്ന് കരുതുക വാട്ടർ പൈപ്പിന് പുറത്ത് നിങ്ങൾ ഈ തണുത്ത വശം വയ്ക്കുക ചൂടുള്ള ഉപരിതലം വെള്ളം ടാപ്പുചെയ്യാനാകുന്ന സ്ഥലവുമായി സമ്പർക്കം പുലർത്തണം അപ്പോൾ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും ഇത് നിലനിർത്താനും കഴിയും എന്നാൽ വെള്ളം ഒഴുകുന്നില്ലെങ്കിൽ നിങ്ങൾ അത് അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശരിയായി പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ഇത് വളരെ രസകരമായ കാര്യമാണ് അതിനാൽ ഈ താപനില വ്യത്യാസം നിലനിർത്തുക എന്നതാണ് പ്രധാനം ദയവായി ശ്രദ്ധിക്കുക കാരണം വളരെ വേഗം ഉള്ള താപപ്രവാഹം ഒരു പ്രശ്നമാണ് ഭൌതികശാസ്ത്രത്തിൽ ഇതെല്ലാം അർത്ഥമാക്കുന്നുണ്ട് എന്താണ് ഇതിനർത്ഥം താപ പ്രതിരോധത്തെക്കുറിച്ചുള്ള എല്ലാം ഇത് അർത്ഥമാക്കുന്നു നിങ്ങൾക്ക് കുറഞ്ഞ താപ പ്രതിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടാകുന്നു വാസ്തവത്തിൽ താപ പ്രതിരോധം വളരെ കുറവാണ് ജികൾക്ക് ശരിക്കും ഈ പ്രശ്നമുണ്ട് അതിനാൽ നിങ്ങൾ ഇത് മനസിൽ വയ്ക്കേണ്ടതുണ്ട് താപ പ്രതിരോധ മാറ്റം കാരണം ഈ താപനില വ്യത്യാസം സുസ്ഥിരമായി നിലനിർത്തുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് നിങ്ങൾ ഡാറ്റ ഷീറ്റുകൾ നോക്കണം ഇത് താപ പ്രതിരോധത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരെന്ന നിലയിൽ ഇത് താപ പ്രതിരോധത്തെക്കുറിച്ചു മാത്രമല്ല മറിച്ച് അത് ഇലക്ട്രിക് റസിസ്റ്റൻസിനെക്കുറിച്ചും കൂടിയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ടി ജിയുടെ ഇലക്ട്രിക് റസിസ്റ്റൻസ് സോഴ്സ് റസിസ്റ്റൻസ് ആണ് ഞാൻ കുറച്ച് അക്കങ്ങൾ ഇടാം TEG ൽ നിന്ന് ചൂടുള്ള വശം 40 ഉം തണുത്ത വശം 30 സെൽഷ്യസും നിലനിർത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ലോഡിൽ ഒരു വോൾട്ടേജ് ലഭിക്കും അത് ഏകദേശം 0 2 വോൾട്ട് ആയിരിക്കും അതായത് 200 മില്ലിവോൾട്ട് നിങ്ങൾക്ക് 0 045 ആമ്പിയറിലുള്ള കറന്റ് ലഭിക്കും ഇതാണ് വോൾട്ട് സ്പെസിഫിക്കേഷൻ ഇതാണ് നിലവിലെ സ്പെസിഫിക്കേഷൻ ഇതാണ് മാച്ച് ലോഡ് ഇത് 4 5 ഓംസ് ആയിരിക്കും ഇത് നിർമ്മാതാവ് നൽകിയ ഒരു നമ്പറാണ് ഞാൻ ഇവിടെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല രണ്ടാമത്തേത് Th 60 ആണെങ്കിൽ Tc തണുത്ത വശം 30 ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് ലഭിക്കും മാച്ച് ലോഡിലെ മാച്ച് ലോഡ് വോൾട്ടേജ് 0 6 വോൾട്ട് ആയിരിക്കും കറന്റ് 0 11 ആമ്പ്സ് ആയിരിക്കും അതായത് 110 മില്ലിയാംപിയ റുകൾ മാച്ച് ലോഡ് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിന് ഇത് 5 2 ഓം ആയി കണക്കാക്കുന്നു അതിനാൽ താപനില വ്യത്യാസത്തിൽ ഇവിടെ 10 ഉം ഇവിടെ 30 ഉം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഉയർന്ന വോൾട്ടേജും ഉയർന്ന കറന്റും ലഭിക്കും മാച്ച് ലോഡ് റസിസ്റ്റൻസ് തുടർച്ചയായി വർദ്ധിക്കുന്നു അതിനാൽ ടി ജിയുടെ ഈ പ്രത്യേക സവിശേഷത ടി സി എന്ന കമ്പനിയിൽ നിന്നുള്ളതാണ് ബോഡി സെൻസർ പവർ തെർമോ ഇലക്ട്രിക് ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകൾക്കായി TEG2 126LDT എന്ന പ്രത്യേക TEG തീർച്ചയായും ഉപയോഗിക്കാം അതിനാൽ IoT കോഴ്സിനായുള്ള ഈ രൂപകൽപ്പനയിൽ വിയറബിൾ രൂപകൽപ്പന ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ആശയം ഉണ്ടായിരിക്കാം ഞാൻ വിയറബിൾ രൂപകൽപ്പന ചെയ്താൽ ഒരു ബാറ്ററി ഇടും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം തീർച്ചയായും നിങ്ങൾ ഒരു ബാറ്ററി ഇടേണ്ടിവരും കാരണം ഒരു നിർണായക പാരാമീറ്റർ നിങ്ങൾ അളക്കുകയാണ് താപനില വ്യത്യാസങ്ങൾക്കായി നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആ പാരാമീറ്റർ അളക്കുമ്പോൾ നിങ്ങൾ ഒരു ബാറ്ററി ഇടും ബാറ്ററി തുടർച്ചയായി ചാർജ് ചെയ്യുന്നതിന് ഈ ടിഇജി ഉപയോഗിക്കാം താപനില വ്യത്യാസം ലഭ്യമാകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയും അതിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നത് തുടരാനാകും അതിനാൽ ഇത് നിങ്ങൾക്ക് ഗൌരവമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു നല്ല പരിഹാരമാണ് നിങ്ങൾ ഇത് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് 40mmx5 45mm ഉണ്ട് യഥാർത്ഥത്തിൽ ഇത് അര സെന്റിമീറ്ററിലധികം കട്ടിയുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന് 40 x 40 4സെന്റിമീറ്റർ x 4 സെന്റിമീറ്റർ ഉണ്ട് ഏകദേശം 5x5 കട്ടിയുള്ള അര സെന്റിമീറ്റർ 5 45 മില്ലിമീറ്റർ ഉള്ളത് ഇത് ഒരു നല്ല TEG ആണ് ഇത് ആംബിയന്റ് പരിപാലിച്ച് നല്ല ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഒരു എസി റൂമിലാണെങ്കിൽ തീർച്ചയായും താപനില 36 ഉം കംഫർട്ട് ലെവലിനെ ആശ്രയിച്ച് 20 അല്ലെങ്കിൽ 22 വരെ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് സുരക്ഷിതമായ 10 ഡിഗ്രി ഡിഫറൻഷ്യൽ ലഭിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ന്യായമായ അളവിൽ വൈദ്യുതി നേടാനും കഴിയും ജിയുടെ കഥയാണ് ജിയുടെ പവർ കണ്ടീഷനിംഗിൽ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടത് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ഈ ടി ജിയുടെ പിന്നിലെ കഥയും ഈ പവർ കണ്ടീഷനും പവർ ഇലക്ട്രോണിക്സും ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് ആ ചിത്രം വീണ്ടും സന്ദർശിച്ച് എല്ലാം പഴയപടിയാക്കാൻ നോക്കാം നമുക്ക് ഈ ചിത്രം നോക്കാം ഈ ഐടിസി 3109 ഉപയോഗിച്ചാണ് ഞങ്ങൾ ആരംഭിച്ചത് താൽപ്പര്യമുള്ള ടിഇജി ചർച്ചചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ വാങ്ങിയതും ഈ പവർ ഇലക്ട്രോണിക് ഭാഗം ശ്രമിക്കുന്നതും ഈ ഐടിസി 3109ൽ ആണ് ഇത് 1 100 ട്രാൻസ്ഫോർമറാണ് ഞങ്ങൾ അത് ഒരു നിമിഷത്തിനുള്ളിൽ ചർച്ച ചെയ്യും സോഴ്സ് റസിസ്റ്റൻസിനെക്കുറിച്ച് ഞങ്ങൾ പരാമർശിച്ചിരുന്നു അത് കഴിയുന്നത്ര കുറവായിരിക്കണം എന്നിട്ട് നമ്മൾ ഒരു മൈക്രോകൺട്രോളർ റീഡിനെക്കുറിച്ചും സംസാരിക്കുന്നു എന്താണ് പ്രധാനം ഇപ്പോൾ നമുക്ക് ഒരു ബോഡി ഹീറ്റ് ഹാർവെസ്റ്റർ സെൻസർ ലഭിച്ചു നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ശരിയായ പവർ ഇലക്ട്രോണിക്സ് ഏതാണ് ഈ കമ്പനി ടിഇസി ഏതെങ്കിലും നിർദ്ദിഷ്ട കമ്പനിയെ എനർജി ഹാർവെസ്റ്റ് ചിപ്പ് ആയി സൂചിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഈ ഐടിസി 3109 ഉചിതമായ ഒന്നാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഒരു ഐടിസി 3109 ഉണ്ട് ഇതാണ് ITC3109 DC DC ഈ ബൂസ്റ്റ് കൺവർട്ടറുകൾ യഥാർത്ഥ Vout ന് പുറമെ ഒരു LDO ഔട്ട്പുട്ടും നൽകുന്നു അവർ നിങ്ങൾക്ക് ഒരു Vstore എന്ന് പറയുന്ന വോൾട്ടേജും നൽകുന്നു Vstore ൽ സംഭരിച്ചിരിക്കുന്ന എനർജി Vout ലേക്ക് പമ്പ് ചെയ്യുന്ന അപ്ലിക്കേഷനുകൾക്കാണ് ഇൻപുട്ട് ഹാർവെസ്റ്റിനായി അത് ഉപയോഗിക്കുന്നില്ല ചില കാരണങ്ങളാൽ ഹാർവെസ്റ്റർ ഇല്ലെങ്കിൽ Vstore ൽ നിന്ന് കുറച്ചു നേരത്തേക്ക് പവർ Vout ലേക്ക് പോകുന്നു നമ്മൾ ഇതുവരെ 40 mm കട്ടിയുള്ള TEG യെക്കുറിച്ചാണ് കണ്ടത് ഇവിടെ എനിക്ക് കനം കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇത് 5 45 മില്ലിമീറ്ററോളം കട്ടിയുള്ളതാണെന്ന് സങ്കൽപ്പിക്കുക അത് 1 100 സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ചില ഡിസൈൻ പരിഗണനകളുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും 1 100 എപ്പോൾ തിരഞ്ഞെടുക്കണം എപ്പോൾ 120 തിരഞ്ഞെടുക്കണം 150 എപ്പോൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെ നമ്മൾ കാണും നിങ്ങളുടെ ഇൻപുട്ട് സാധാരണ 30 മില്ലിവോൾട്ടിന്റെ ക്രമത്തിലാണെങ്കിൽ നിങ്ങൾ 1 100 തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ഇൻപുട്ട് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് 50 മില്ലിവോൾട്ട് ആണെന്നും അതിനാൽ നിങ്ങൾക്ക് 1200 സ്റ്റെപ്പ് അപ്പ് ആവശ്യമില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ നിങ്ങൾക്ക് 120 തിരഞ്ഞെടുക്കാം അതിനനുസരിച്ച് വോൾട്ടേജ് മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് 150 ഉം 1 20 ഉം തിരഞ്ഞെടുക്കാം ഇൻപുട്ട് വോൾട്ടേജുകൾ എപ്പോൾ ഉയരും ഇത് നിങ്ങളുടെ അപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ച ഗീസർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നല്ല അളവിലുള്ള താപനില വ്യത്യാസം നൽകുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 1 100 ആവശ്യമില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമറും ഇല്ലാതെയും ചെയ്യാം ഐടിസി 3105 ലേക്ക് നേരിട്ട് ഇന്റർഫേസ് ചെയ്യുക അതിനാൽ താപനില വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഹാർവെസ്റ്റിംഗ് അവസരം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം ഈ പ്രത്യേക ട്രാൻസ്ഫോർമർ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ ടി ജിയുടെ ശരിയായി ഇടണം അത് നിങ്ങൾ ചൂട് സിങ് ചെയ്യണം തണുത്ത വശത്ത് ചൂട് വരയ്ക്കാൻ കഴിയണം അത് ചൂടുള്ള ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നു അല്ലാത്തപക്ഷം ആ ചൂട് പുറത്തെടുക്കാൻ കഴിയണം താപനില വ്യത്യാസങ്ങൾ കുറയുകയും പിന്നീട് ഒന്നും വരികയുമില്ല അതിനാൽ ഇതിനായി ഒരു നല്ല ചൂട് സിങ് കഴിവ് എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് നിങ്ങൾ നോക്കണം അതിനാൽ വ്യത്യസ്ത ഇൻപുട്ട് വോൾട്ടേജുകൾക്കും വ്യത്യസ്ത ടേൺ റേഷ്യോകൾക്കുമായുള്ള കറൻ്റിൻെറ വാല്യുകൾ തരുന്ന ചില കർവുകൾ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റുകളിൽ നിന്നും കിട്ടും അതിനാൽ ഈ ട്രാൻസ്ഫോർമർ വീണ്ടും പ്രശ്നമാണ് നിങ്ങൾ താപനില ഡിഫറൻഷ്യൽ നോക്കണം അതിനാൽ ഞാൻ dT1 ഉണ്ടെന്ന് പറയാം അതിനാൽ ഡാറ്റ ഷീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും ലഭിക്കും ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഏകദേശം 15 മില്ലി വാട്ട് ലഭിക്കുമെന്ന് നിർമ്മാതാവ് അവകാശപ്പെടുന്നു പവർ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പരമാവധി 15 മില്ലി വാട്ട് ഔട്ട്പുട്ടും കുറഞ്ഞത് 50 മൈക്രോ വാട്ടും ലഭിക്കും ഇത് മിനിമം പവർ ആയിരിക്കും അതിനാൽ ഇത് മറ്റൊരു പ്രധാന കാര്യമാണ് നിങ്ങൾക്ക് നിരന്തരമായ പവർ ലഭിക്കുമോ എന്നതാണ് ഇപ്പോൾ ചോദ്യം നിങ്ങൾക്ക് തുടർച്ചയായ പവർ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് താപനില വ്യത്യാസം വളരെക്കാലംസ്ഥിരമായ രീതിയിൽ നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയും എന്നാൽ പ്രായോഗികമായി അത് അൽപ്പം ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഈ TEG തിരഞ്ഞെടുത്തത് ഇത് ശരീരത്തിലെ ചൂട് ഹാർവെസ്റ്റിനും ബോഡി സെൻസറിനും വേണ്ടിയുള്ളതാണ് എനിക്ക് മറ്റ് ചില വെണ്ടർമാരെയും തിരഞ്ഞെടുക്കുമായിരുന്നു മറ്റ് വെണ്ടർമാരിൽ നിന്ന് സമാനമായ ഒരു ഉൽപ്പന്നം ഉണ്ടാകാം ഇത് അടിസ്ഥാനപരമായി തന്നിരിക്കുന്ന അപ്ലിക്കേഷന്റെ ശരാശരി പവറിനെ ആശ്രയിച്ചിരിക്കും dT ആണ് കീ ആവശ്യമായ ആപ്ലിക്കേഷൻ ശരാശരി പവറാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ ഇവയാണ് വീണ്ടും നിർമ്മാതാവ് ധാരാളം നല്ല സംഖ്യകൾ നൽകുന്നു ജിയുമായി പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതിന് പകരം നിർമ്മാതാവ് പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചുനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ നിരവധി ടി ജികൾ നോക്കിയിട്ടുണ്ട് മാത്രമല്ല ഡാറ്റ ഷീറ്റുകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഡിസൈൻ ആസൂത്രണം ചെയ്യുന്നതിന് ഡാറ്റ ഷീറ്റ് ശ്രദ്ധാപൂർവ്വം പഠിക്കണം നിർമ്മാതാവ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ഒരു സാധാരണ ടി ജിയിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് പവറിനെക്കുറിച്ചാണ് ഒരു സാധാരണ ടി ജിയെ സംബന്ധിച്ചിടത്തോളം ടി ജി വിസ്തീർണ്ണത്തിന്റെ ഓരോ ചതുരശ്ര സെന്റിമീറ്റർ കെൽവിനും ഏകദേശം 90 മൈക്രോവാട്ട് ലഭിക്കുന്നു ഇത് ലളിതമായി അർത്ഥമാക്കുന്നത് നിങ്ങൾ നല്ല ഹീറ്റ് സിങ്ക് നിലനിർത്തുന്നു എന്നതാണ് അത് വളരെ പ്രധാനമാണ് എന്നാൽ ഉപയോഗയോഗ്യമായത് എന്താണ് ഇത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പവർ നൽകുന്നു നിങ്ങൾ ഈ ഐടിസി 3109 കണ്ടീഷനിംഗ് 1100 എന്ന രീതിയിൽ ചെയ്യേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഔട്ട് പുട്ടിൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് Voutും കറണ്ട് Ioutും ലഭിക്കുന്നു നിർമ്മാതാവ് ചില നല്ല നിരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല എന്ന് നിർമ്മാതാവ് പറയുന്നു ഞാൻ ഇത് നിർത്തുകയാണ് ഒരു സാധാരണ ടി ജിയുടെ ഓരോ ചതുരശ്ര സെന്റിമീറ്റർ വിസ്തീർണ്ണത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ട് ഇതാണ് ഡിഗ്രി കെൽവിന് 25 മൈക്രോവാട്ട് ആണ് ലഭിക്കുന്നത് അതിനാൽ നിങ്ങൾ 40 മില്ലീമീറ്റർ x 40 മില്ലീമീറ്റർ വിസ്തീർണ്ണം എടുക്കുകയാണെങ്കിൽ dT ഉപയോഗിച്ച് 10 ഡിഗ്രി കെൽവിൻ എന്ന് പറയാം 10 ഡിഗ്രി കെൽവിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏകദേശം 4 മില്ലി വാട്ട് വരെ ലേഭികുന്നു അതിനാൽ ഞങ്ങളുടെ പക്കലുള്ള എല്ലാ കുറഞ്ഞ പവർ ഇലക്ട്രോണിക്സിലും ഈ പവർ മതിയാകുന്നു ചില നല്ല പവർ മാനേജുമെന്റ് അൽഗോരിതം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ 4 മില്ലിവാട്ട് പവർ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ നിർമ്മാതാവിന്റെ ഡാറ്റ ഷീറ്റുകൾ ശ്രദ്ധാപൂർവ്വം നോക്കുക ഒപ്പം ഡിസൈനുമായി മുന്നോട്ട് പോകുക ഇവിടെ ഞങ്ങൾ സോഴ്സ് റെസിസ്റ്റൻസ് 2 5 ഓം ആയി കണക്കാക്കുന്നു അതാണ് പ്രധാന കാര്യം സോഴ്സ് റെസിസ്റ്റൻസ് 2 5 ഓം ആയിരിക്കും അതിനാൽ മറ്റൊരു പ്രധാന പരിഗണനയും ഇതാണ് എനർജി ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകൾക്കായി പരമാവധി ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും കിട്ടുന്നതിന് മാക്സിമം പവർ ഔട്ട്പുട്ട് തരുന്ന ടിഇജി വാങ്ങണം ഏറ്റവും കുറഞ്ഞ സോഴ്സ് റെസിസ്റ്റൻസും കൂടെയാണ് ഇത് എല്ലായ്പ്പോഴും നല്ല കാര്യമാണ് പരമാവധി ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും ഏറ്റവും കുറഞ്ഞ സോഴ്സ് റെസിസ്റ്റൻസും ശ്രദ്ധിക്കുക ചെറിയ സിസ്റ്റത്തിന് നല്ലൊരു ഔട്ട്പുട്ട് നൽകുന്നതിന് ഇത് നല്ലതാണ് 40 മില്ലീമീറ്റർ x 40 മില്ലീമീറ്റർ പോലുള്ള വലിയ വലിപ്പത്തിലുള്ള ടി ജികൾക്കും കുറഞ്ഞ താപ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അവർ പരാമർശിക്കുന്നു ഇതൊരു പ്രശ്നമാണ് അതിനാൽ നിങ്ങളുടെ ഹീറ്റ് സിങ്കിങ് വളരെ നല്ലതായിരിക്കണം കാരണം വളരെ വേഗം ചൂടുള്ള ഭാഗവും തണുത്ത വശവും ഒരു സന്തുലിതാവസ്ഥയിലേക്ക് വരും കാരണം ഈ കുറഞ്ഞ താപ പ്രതിരോധ പ്രശ്നമാണ് ഗെയ്സർ ഉദാഹരണം ഇപ്പോൾ അൽപ്പം മാറുന്നതായി തോന്നുന്നു ഓട്ടോമൊബൈൽ ഒരുപക്ഷേ നല്ലതാണ് നിങ്ങളുടെ റേഡിയേറ്റിംഗ് റേഡിയേറ്ററിന് കുറച്ച് കൂളൻ്റും കുറച്ച് സർക്കുലേറ്ററും ആവശ്യമുണ്ട് വാഹനം നീങ്ങുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ടിഇജി സ്ഥാപിച്ചിരിക്കുന്നിടത്തെല്ലാം എഞ്ചിൻ ഉപരിതലം ചൂടാകാം പക്ഷേ വായു സഞ്ചരിക്കുന്നതിനാൽ തണുത്ത വശം ചില ന്യായമായ ഫെയ്സിൽ തുടരാം ഓട്ടോമൊബൈലിന്റെ എഞ്ചിൻ കമ്പാർട്ടുമെന്റിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഓട്ടോമൊബൈലിൽ അത് തീർച്ചയായും കാണാം ആ സിസ്റ്റത്തിൽ നിന്ന് ഗണ്യമായ അളവിൽ ഉയർന്ന വൈദ്യുതി ഹാർവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം ഇത്തരത്തിലുള്ള ഉയർന്ന താപനിലയിലുള്ള ആപ്ലിക്കേഷനുകൾക്കാണ് ഈ ടിഇജി ഉപയോഗിക്കുന്നത് ചൂടുള്ള വശം ഉയർന്ന താപനിലയിലേക്ക് പോകാം അതിനാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കി വീണ്ടും തിരഞ്ഞെടുക്കേണ്ടിവരും ജികൾക്ക് ഏതുതരം താപനിലയെ നേരിടാൻ കഴിയും അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ചൂടുള്ളതും തണുത്തതുമായ വശങ്ങൾ നിങ്ങൾ വിപരീതമാക്കരുതെന്നതും ശ്രദ്ധിക്കുക തണുത്ത വശത്തിന് ഉയർന്ന താപനിലയെ നേരിടാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ചൂട് പുറപ്പെടുവിക്കുന്ന എഞ്ചിൻ ഭാഗത്ത് തണുത്ത വശം സ്പർശിച്ചാൽ TEG യഥാർത്ഥത്തിൽ മോശമാവുകയും അത് ഉപയോഗിക്കാൻ കഴിയുകയും ഇല്ല അതിനാൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് ഈ ലളിതമായ മുൻകരുതലുകൾ ശ്രദ്ധിക്കുക ഞാൻ കഥ പൂർത്തിയാക്കട്ടെ ഈ കുറഞ്ഞ താപ റസിസ്റ്റൻസിന് ഒരു പ്രശ്നമുണ്ട് ഇതിനർത്ഥം നിങ്ങൾ നല്ല അളവിൽ ഹീറ്റ് സിങ്ക് ഇടേണ്ടിവരുമെന്നാണ് ഇത് തീർച്ചയായും ഒരു നിർണായക ആവശ്യകതയായി മാറുന്നു എന്നാൽ നിങ്ങൾ വലിയ ടി ജി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ല എന്നതാണ് ഒരു ഹീറ്റ് സിങ്ക് ഇടുന്നത് ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് വലിയ ഏരിയ ഉണ്ടെങ്കിൽ ബോഡി അധിഷ്ഠിത സിസ്റ്റങ്ങൾക്കായി വലിയ ടി ജികൾ ഞാൻ ശുപാർശ ചെയ്യില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മതിയായ പവർ നൽകാൻ കഴിയുന്ന ഒരേയൊരു മാർഗ്ഗം ഇതാണെന്ന് തോന്നുന്നു അതാണ് പ്രശ്നം അതിനാൽ ചെറിയ ചെറിയ നാനോ പെൽറ്റുകളോ മൈക്രോ പെൽറ്റുകളോ പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം വാസ്തവത്തിൽ മൈക്രോപെൽറ്റ് എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ട് അത് ഗൂഗിൾ ചെയ്തു നോക്കുക ഇവിടെ ഈ സിസ്റ്റങ്ങളുടെ സോഴ്സ് റെസിസ്റ്റൻസ് ഏകദേശം 200 ഓംസ് അല്ലെങ്കിൽ 2 മുതൽ 300 ഓംസ് വരെയാണ് ഇത് വളരെ രസകരമായ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമുക്ക് കാണാം തുടക്കത്തിൽ നിങ്ങൾക്ക് ഉയർന്ന സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ TEG ൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഉയർന്നതായിരിക്കും അതേസമയം നിങ്ങൾ കുറഞ്ഞ താപം എടുക്കുകയാണെങ്കിൽ ടി ജികളുടെ ഈ സോഴ്സ് റെസിസ്റ്റൻസ് 2 ഓംസ് 2 5 ഓംസ് 5 മുതലായ കുറഞ്ഞ വാല്യുകൾ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് 10 100 മില്ലിവോൾട്ടുകളുടെ ക്രമത്തിലായിരിക്കും അതിനാൽ നിങ്ങൾ വളരെയധികം വിഷമിക്കേണ്ടതില്ല ഒരു ഡാറ്റ ഷീറ്റിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് നമുക്ക് 30 മില്ലിവോൾട്ട് അല്ലെങ്കിൽ 50 മില്ലിവോൾട്ട് എന്ന് പറയാം എനിക്ക് 50 മില്ലിവോൾട്ട് തരാൻ കഴിയും പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 3 3 നൽകുന്നതിന് 50 മില്ലിവോൾട്ടിന്റെ ഒരു സർക്യൂട്ട് ഉണ്ട് നിങ്ങൾക്ക് 200 മില്ലിവോൾട്ട് അല്ലെങ്കിൽ 100 മില്ലിവോൾട്ട് നൽകും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ സോഴ്സ് റസിസ്റ്റൻസ് 100 200 മുതൽ 300 ഓം വരെയായിരിക്കണം ഇത് വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പവർ ഇലക്ട്രോണിക് ചിപ്പ് ഇവിടെ വളരെ നിർണ്ണായകമാണ് ഒരു തെർമോ ഇലക്ട്രിക് ആപ്ലിക്കേഷനായി നിങ്ങൾ തെറ്റായ പവർ ഇലക്ട്രോണിക് വെണ്ടർ ചിപ്പ് എടുത്ത് കണക്റ്റുചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സോഴ്സ് റസിസ്റ്റൻസ് ചിപ്പിന്റെ ഇൻപുട്ട് റസിസ്റ്റൻസുമായി പൊരുത്തപ്പെടണം ഉദാഹരണത്തിന് ടിഇസി എന്ന് വിളിക്കുന്ന ഈ കമ്പനിയിൽ നിന്നും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ടിഇജി എടുക്കുകയും അതേ വെണ്ടറുമായി മറ്റേതെങ്കിലും ചിപ്പുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനർജി ഹാർവെസ്റ്റിംഗ് ചിപ്പ് തെറ്റായ തീരുമാനമാണ് വെണ്ടർ തന്നെ പറയുന്നത് ഞാൻ തരാം എന്റെ TEG ചിപ്പ് 3109 ITC3109 അല്ലെങ്കിൽ 3108 എന്നിവ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സോഴ്സ് റസിസ്റ്റൻസ് 2 5 ഓംസ് മുതൽ 5 ഓം വരെ ക്രമത്തിലായിരിക്കും ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഉപയോഗപ്രദമായ പവർ വേർതിരിച്ചെടുക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഈ ചിത്രം മനസ്സിൽ വയ്ക്കുക അതിനാലാണ് നിങ്ങളുടെ ഘടകങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത് മൈക്രോ പെൽറ്റ് മറ്റൊരു കമ്പനിയാണ് 200 മുതൽ 300 ഓം വരെ ക്രമത്തിൽ ആരുടെ സോഴ്സ് റസിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഈ ഐടിസി 3109 അല്ലെങ്കിൽ 3108 മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കരുത് മൈക്രോ പെൽറ്റ് വെബ്സൈറ്റിൽ അവർ ശുപാർശ ചെയ്യുന്നത് ഈ വെണ്ടർ ടിഐയിൽ നിന്നാണ് ഇത് BQ25504 ആണ് അദ്ദേഹം എൽടിസിയെ നിർദ്ദേശിക്കുന്നു നിങ്ങൾക്ക് MPPCI യ്ക്കൊപ്പം LTC3105 ഉപയോഗിക്കാനും കഴിയും ഞങ്ങൾ ഇത് ഇതിനകം ചർച്ചചെയ്തു അതിനാൽ MPPCI ഉപയോഗിച്ച് നിങ്ങൾക്ക് LTC3105 ഉപയോഗിക്കാം അല്ലെങ്കിൽ BQ25504 ലേക്ക് ഇന്റർഫേസ് ചെയ്യാം ഓർക്കുക നിങ്ങളുടെ കയ്യിൽ മനോഹരമായ ഒരു ഉപകരണം ഉണ്ട് ഉപകരണം ഉപയോഗിക്കാൻ മറക്കരുത് എന്താണ് അത് സിമുലേഷൻ എല്ലാ വെണ്ടർമാർക്കും ഒരു സിമുലേഷൻ ഉപകരണം ഉണ്ടായിരിക്കും നിങ്ങൾ അതിനാൽ ശ്രദ്ധിക്കണം നിങ്ങൾ വെണ്ടറിൽ നിന്ന് ഒരു ഘടകം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വെണ്ടറിൽ നിന്ന് ഒരു ഉപകരണവും തിരയുക അത് അവിടെ ഉണ്ടാകും വാസ്തവത്തിൽ ഈ BQ ചിപ്പിനായി ഒരു സിമുലേഷൻ ഉപകരണം ഉണ്ട് ഒരിക്കൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു ഈ വെണ്ടർ ലീനിയർ ടെക്നോളജികൾക്ക് അദ്ദേഹത്തിന്റെ ഉപകരണം സാധാരണ എൽടിസി സ്പൈസുകങ്ങൾ ഉണ്ട് അവർക്ക് ഒരു ഓൺലൈൻ സിമുലേഷൻ ടൂൾ ഉണ്ട് അത് വാല്യുകൾ പോഷിപ്പിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ചിലത് ലഭിക്കും നിങ്ങളുടെ സർക്യൂട്ട് അക്സപ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സിസ്റ്റം ഡിസൈനുമായി ബന്ധപ്പെട്ട പാർട്ട് നമ്പറുകളും ഘടകങ്ങളും നിങ്ങൾക്കറിയാം അതിനാൽ ധാരാളം സിസ്റ്റം ഡിസൈൻ വെല്ലുവിളികൾ ഐഒടി സിസ്റ്റം നിർമ്മിക്കുന്നത് വളരെ സുഖകരമാണ് എവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടെത്താമെന്നും എങ്ങനെ ചെയ്യാമെന്നും നിങ്ങൾ അറിയണം ഉദാഹരണത്തിന് ഇത് എന്റെ ഇൻപുട്ട് വോൾട്ടേജാണെന്നും പരിസ്ഥിതിയിൽ നിന്ന് എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യാമെന്നും എനിക്ക് നിലനിർത്താൻ കഴിയുന്ന ഡിഫറൻഷ്യൽ ആണെന്നും നിങ്ങർക്ക് കാണാം ആ മൂല്യങ്ങളിൽ ഫീഡ് നൽകുക ഏത് തരത്തിലുള്ള ഘടകങ്ങൾ ആവശ്യമാണെന്ന് ഇത് നിങ്ങളോട് പറയും നിങ്ങൾ 1100 ഇടേണ്ടതുണ്ടോ നിങ്ങൾ 150 ഇടണോ നിങ്ങൾ 120 സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഇടണോ മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഇൻഡക്റ്റർ മൂല്യം എന്തായിരിക്കണം ഔട്ട്പുട്ട് ഇൻഡക്റ്റർ വാല്യു കാരണം ഇത് ഒരു ബക്ക് കൺവെർട്ടറാണെന്നും ഇത് ഒരു ബൂസ്റ്റ് കൺവെർട്ടറാണെന്നും മറക്കരുത് അതിനാൽ ഔട്ട്പുട്ട് ഇൻഡക്റ്റർ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ബക്ക് ചെയ്യുക എന്നത് ഇവിടെ ഒരു നിർണായക കാര്യമാണ് അതിനാൽ ഐടിസി 3109 നുള്ള സിമുലേഷൻ ഉപകരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ നമുക്ക് അത് ചർച്ചചെയ്യാം എനിക്ക് നിങ്ങൾക്ക് സിമുലേഷൻ കാണിക്കാൻ കഴിയും തുടർന്ന് ഡൌൺലോഡ് ചെയ്ത് സ്വയം പരീക്ഷിക്കുക നിങ്ങൾക്ക് ഒരു TEG ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ല നിങ്ങൾക്ക് ഒരു പിസി അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണും നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റർനെറ്റ് കണക്ഷനും കാണും ലഭ്യമായ ഉപകരണങ്ങൾ ഡൌൺലോഡുചെയ്യുക ഏതെങ്കിലും വെണ്ടർമാരോട് പ്രത്യേകമായി പറയരുത് വ്യത്യസ്ത വെണ്ടർമാരെ പരീക്ഷിച്ച് പൊരുത്തം പരീക്ഷിക്കുക വെണ്ടർ നൽകിയ മോഡലുകളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ വെണ്ടർ നൽകുന്നതിനോട് ഏറ്റവും അടുത്തുള്ള സിമുലേഷൻ പാരാമീറ്ററുകളിൽ മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾ സംതൃപ്തനായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിമുലേഷൻ പ്രവർത്തിപ്പിക്കുക തുടർന്ന് നിങ്ങളുടെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നതിന് ഈ കിറ്റുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപം നടത്തുക അതിനാൽ ആ ഭാഗം നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട ഒന്നാണ് പീസ് സ്പൈസിനായി ഞാൻ ചെയ്ത ഈ സിമുലേഷനിലേക്ക് ശ്രദ്ധ തിരിക്കട്ടെ അതിനാൽ ഇതാണ് LTEspice LTE3 എന്റെ കഴ്സർ ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം ഈ മുകളിലെ വശമാണ് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സർക്യൂട്ടിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അത് വെബിലും ഞാൻ കണ്ടെത്തി അതിനാൽ നമുക്ക് കൂടുതൽ സമയം പാഴാക്കരുത് ഇവിടെ ലഭ്യമായതെന്തും നിങ്ങൾക്ക് പരിഷ്കരിക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് ഇത് സ്വയം പരീക്ഷിച്ചുനോക്കൂ അതിനാൽ 0 വോൾട്ടിൽ നിന്ന് ഇപ്പോൾ ഔട്ട്പുട്ട് പതുക്കെ എടുക്കുന്നതായി നിങ്ങൾ നോക്കുക ഈ സിമുലേഷൻ കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കും കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പരീക്ഷിക്കാനും പാരാമീറ്ററുകൾ പരിഷ്ക്കരിക്കാനും കഴിയും ഞാനിത് ഇവിടെ നിർത്തുന്നു അതുവഴി നമുക്ക് ഇവിടെ ഒരു ചെറിയ സമയം ചെലവഴിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് പ്രധാനമായും പാരാമീറ്ററുകൾ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് മാറ്റാൻ കഴിയും നിങ്ങൾ നോക്കുന്ന തരത്തിലുള്ള സോഴ്സ് മാറ്റാനും സർക്യൂട്ട് വീണ്ടും അനുകരിക്കാനും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നതിനുമുമ്പ് മാറ്റാനും കഴിയും അതിനാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് നന്നായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് പ്രധാനം അതിനാൽ താപ ഊർജ്ജ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാറ്റിന്റെയും ഒരു വലിയ സംഗ്രഹമാണിത് എമ്പഡഡ് സിസ്റ്റത്തിന്റെ പവർ വിഭാഗത്തിനായോ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഐഒടി സിസ്റ്റത്തിനായോ എനർജി ഹാർ വെസ്സ്റ്റി നെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടും രണ്ട് പോയിന്റുകൾ സംഗ്രഹിക്കാൻ പോകുകയാണ് ടി ജികളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഏകീകരിക്കാം ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് എനിക്ക് TEG കൾ ഉപയോഗിക്കാനാകുമോ എന്നതാണ് ഒരു കാര്യം ഉത്തരം അതെ പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ടി ജിയുടെ ഔട്ട്പുട്ട് പവർ മാനേജുമെന്റിലേക്കോ ബാറ്ററിയുടെ ചാർജിംഗ് ഐസിയിലേക്കോ കൈമാറാൻ ശ്രദ്ധിക്കണം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഐടിസി 3109 അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവെർട്ടർ ചിപ്പ് എന്ന് നമുക്ക് പറയാം ഇത് യഥാർത്ഥത്തിൽ ബാറ്ററി ചാർജിംഗ് ചിപ്പിലൂടെ കടന്നുപോകണം തുടർന്ന് അത് ബാറ്ററിയുമായി ബന്ധിപ്പിക്കണം ഇത് എല്ലാ ഓവർ വോൾട്ടേജിലും വോൾട്ടേജ് പരിരക്ഷയിലും ശ്രദ്ധിക്കും ഇത് ഉറപ്പാക്കും കാരണം നിങ്ങൾ ഒരു ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു താപനില സെൻസർ കണക്റ്റുചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് താപനില സെൻസറുമായി ബന്ധിപ്പിക്കും കാരണം നിങ്ങൾ ബാറ്ററിയിൽ ചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചാർജ്ജുചെയ്യുമ്പോൾ ബാറ്ററി വളരെ ചൂടാകുകയും ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ലിഥിയം സ്ഫോടനാത്മകമാണ് അതിനാൽ ചാർജിംഗ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും സാധ്യമായ എല്ലാ മുൻകരുതലുകളും ഉപയോഗിക്കുകയും വേണം അതിനാൽ അത് നേരിട്ട് ചാർജ് ചെയ്യരുത് അത് മറ്റൊരു പ്രധാന കാര്യമാണ് രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ കാര്യക്ഷമത എന്താണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാര്യക്ഷമത 20 മുതൽ 40 ശതമാനം വരെ ആകാം സൌര സൈദ്ധാന്തിക കാര്യക്ഷമത 26 ശതമാനം ആയിരിക്കും മിക്ക പാനലുകളും നിങ്ങൾക്ക് അത്തരം കാര്യക്ഷമത നൽകുന്നില്ല സൌരവുമായി ബന്ധപ്പെട്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു എല്ലാ പരിവർത്തനത്തിനും എല്ലാ നഷ്ടങ്ങൾക്കും ശേഷം എല്ലാ കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഞാൻ 10 ശതമാനം എടുത്തു 10 ശതമാനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ആ നമ്പറുകൾ നൽകുന്നു ടിഇജി ലോകത്ത് ആളുകൾ ഇത് 20 മുതൽ 40 ശതമാനം വരെ ക്രമത്തിലാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ഇവയിൽ എല്ലാ നഷ്ടങ്ങളും ഉൾപ്പെടുന്നില്ല അതിനാൽ സിസ്റ്റത്തിന്റെ യഥാർത്ഥ കാര്യക്ഷമത തീരുമാനിക്കുന്നതിന് മുമ്പ് ഇവയിൽ പലതും അടിസ്ഥാനമാക്കി സ്വയം തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു നമുക്ക് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് പോകാം നമുക്ക് മറ്റൊരു തരത്തിലുള്ള എനർജി ഹാർവെസ്റ്ററിനെക്കുറിച്ച് സംസാരിക്കാം ഈ എനർജി ഹാർവെസ്റ്ററിന്റെ ഡെമോയോടെ നമുക്ക് ആരംഭിക്കാം ഈ പ്രത്യേക എനർജി ഹാർവെസ്റ്റിന് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം മാധുരി എന്റെ സഹപ്രവർത്തക മറ്റൊരു തരം ഹാർവെസ്റ്ററെ കാണിക്കും അവൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല വലയം ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കും ഈ വലയം 3D യിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു 3D പ്രിന്റഡ് എൻക്ലോസറാണ് ഇവിടെ ഒരു പ്ലംഗർ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണും അവൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്സ് പോലെയുള്ള ഒന്ന് ഉണ്ട് അവൾ അത് ഒരു നിമിഷത്തിനുള്ളിൽ അമർത്തും നിങ്ങൾ ആ പ്ലംഗറിനെ പ്രോസസ്സ് ചെയ്താൽ അത് ഒരു സ്വിച്ച് പോലെയാണ് ഈ സംവിധാനം നിങ്ങൾ അകത്ത് കാണും ഇത് ഡിപ്റസ്സ്ഡ് ആവുകയും ഒരു നിശ്ചിത അളവിൽ വോൾട്ടേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു നല്ല സിസ്റ്റം പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ സമയ ക്രമീകരണം അവർ ക്രമീകരിക്കട്ടെ അവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ കൈവശമുള്ളത് വൈദ്യുതകാന്തിക സ്വിച്ച് അല്ലാതെ മറ്റൊന്നുമല്ല അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇതിനെ ഒരു ലീനിയർ മോഷൻ ഹാർവെസ്റ്റർ എന്ന് വിളിക്കാം അതിനാൽ പ്ലങ്കറിന്റെ ഒരു രേഖീയ ചലനത്തിൽ ഒരു കോയിൽ ഉണ്ട് അതിനകത്ത് ഒരു കാന്തമുണ്ട് അവൾ അമർത്തുമ്പോഴെല്ലാം ഈ കോയിലിലുടനീളം ഒരു ചെറിയ അളവിലുള്ള വോൾട്ടേജ് ഉണ്ട് ഇത് അടിസ്ഥാനപരമായി സിസ്റ്റത്തിന്റെ എനർജി സ്രോതസ്സ് മാത്രമാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാം അതിനാൽ പുഷ് ബട്ടൺ സ്വിച്ചുകൾ ഉപയോഗിച്ച് സിസ്റ്റങ്ങൾ എനർജി വിളവെടുപ്പിന് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു വൈദ്യുതകാന്തിക സ്വിച്ച് ആണ് ഇത് ചലനാത്മകതയിൽ നിന്ന് എനർജി ശേഖരിക്കുന്നു പുഷ് ബട്ടണുകൾ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ ഊർജ്ജത്തിന്റെ സോഴ്സ് സ്രോതസ്സാണ് കൈനറ്റിക് എനർജി ഹാർവെസ്റ്റർ ഇത് എന്താണ് ഇത് യഥാർത്ഥമാണോ അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തരംഗരൂപത്തിൽ നിങ്ങൾ എന്തുചെയ്യുന്നു അത് ഒരു എസി തരംഗമാണ് ഈ പുഷ് ബട്ടൺ സ്വിച്ചിന് ചുറ്റും ഒരു ചെറിയ സർക്യൂട്ട് നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ആ സർക്യൂട്ട് വികസിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ഹാർവസ്റ്ററിന്റെ ഔട്ട്പുട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇത് ഒരു ലീനിയർ മോഷൻ ഹാർവെസ്റ്ററാണ് ഈ ഹാർവെസ്റ്റർ ഞാൻ ഒരു ബ്ലോക്ക് പോലെ പ്രതിനിധീകരിക്കും ഞാൻ അതിനെ ഒരു ബ്രിഡ്ജ് റക്റ്റിഫയറുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഔട്ട്പുട്ട് ഇവിടെ ഒരു ചെറിയ കപ്പാസിറ്ററിൽ സൂക്ഷിക്കാം എനർജി സംഭരിക്കുന്നതിന് 33 മൈക്രോഫാരഡ് കപ്പാസിറ്ററാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് BAT54 ഡയോഡുകളും ഷോട്ട്കി ബാരിയർ ഡയോഡുകളുമാണ് ഇത്തരത്തിലുള്ള എനർജി ഹാർവെസ്റ്റ് പ്രയോഗങ്ങൾക്ക് ഇവ വളരെ ഫലപ്രദമാണ് പ്രധാനമായും ഷോട്ട്കി ഡയോഡുകൾ എനർജി ഹാർവെസ്റ്റ് പ്രയോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഡയോഡുകളെക്കുറിച്ച് നിങ്ങൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടിസ്ഥാനപരമായി അവിടെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഫോർവേഡ് കറന്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഫോർവേഡ് കറന്റ് 0 1 മില്ലിയാംപിയർ ആണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് 200 ഉം 40 മില്ലിവോൾട്ടും ആണ് ഫോർവേഡ് കറന്റ് ഡയോഡിലൂടെ ഉള്ള കറന്റ് 100 മില്ലിയാംപിയറിലേക്ക് പോയാൽ നിങ്ങൾക്ക് 8 മില്ലിവോൾട്ടുകളുടെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ലഭിക്കും ഡാറ്റാ ഷീറ്റിലേക്ക് ഞാൻ വീണ്ടും പോകുകയാണ് ദയവായി ഡാറ്റ ഷീറ്റ് നോക്കുക ഡാറ്റ ഷീറ്റിൽ ഉള്ള എല്ലാം രൂപകൽപ്പന ചെയ്യുക ഇതാണ് പ്രധാന പോയിന്റ് അതിനാൽ ഈ ഡാറ്റയെല്ലാം ഞങ്ങൾ നിങ്ങളോട് നന്നായി പറയും ഞാൻ ഇവിടെ ഇടുന്ന ഈ നമ്പറുകളെല്ലാം യഥാർത്ഥത്തിൽ ഡാറ്റ ഷീറ്റുകളിൽ നിന്നുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് ആശയം ഉണ്ടെങ്കിൽ മുഴുവൻ ഡിസൈനും മാറ്റാൻ കഴിയും ഡാറ്റാ ഷീറ്റിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും അതിനാൽ ഇവിടെ ഒരു ലീനിയർ ഹാർവെസ്റ്റർ ഉണ്ട് ഇത് അടിസ്ഥാനപരമായി ഒരു വൈദ്യുതകാന്തിക സ്വിച്ച് ആണ് ഇത് ചെറി എന്ന കമ്പനിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ചെറി സ്വിച്ചിൽ നിന്ന് ഉപയോഗിക്കാം എനോസിയോണിൽ നിന്ന് നമുക്ക് ഇക്കോ 200 ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള ഒരു ലീനിയർ ഹാർവെസ്റ്ററെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു കമ്പനിയാണ് എനോസോൺ അവ ഉപയോഗിക്കുക ഒരു ബ്രിഡ്ജ് റക്റ്റിഫയർ സർക്യൂട്ട് വഴി വയ്ക്കുക ആ എനർജി സംഭരിക്കുകയും ഈ ഊർജ്ജം ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് എത്രമാത്രം ലഭിക്കും എന്നതാണ് വീണ്ടും ചോദ്യം ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ നിന്ന് ഏകദേശം 120 മൈക്രോ ജൂൾ എനർജി ലഭിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് ഏകദേശം 120 മൈക്രോ ജൂൾസ് എനർജി ലഭിക്കുന്നു ഇത്തരത്തിലുള്ള മൈക്രോ ജൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് മൈക്രോകൺട്രോളർ ബൂട്ട് ചെയ്യാൻ കഴിയും എന്നതാണ് നിങ്ങൾക്ക് ADC പോർട്ടിൽ നിന്ന്സെൻസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരു BLE ബ്ലൂടൂത്ത് ലോ എനർജി ഡാറ്റ പാക്കറ്റ് കൈമാറാനും കഴിയും നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് അതാണ് നിങ്ങൾ ഓൺ അല്ലെങ്കിൽ ഓഫ് അയയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു സ്വിച്ചിന്റെ സ്ഥാനം മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ഹാർവെസ്റ്റർ ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാൻ കഴിയും ഡിസി ഔട്ട്പുട്ട് എങ്ങനെ കാണപ്പെടും അതാണ് അടുത്ത ചോദ്യം ഇത് എസിയായതിനാൽ നിങ്ങൾ എല്ലാ പവർ കണ്ടീഷനിംഗും ചെയ്യണം ഡിസി ഔട്ട്പുട്ടിലേക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കട്ടെ വരുന്ന DC ഔട്ട്പുട്ട് നോക്കാം ഡിസി ഔട്ട്പുട്ടിന്റെ ഒരു സ്നാപ്പ്ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനാൽ അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഞാൻ കാണിച്ചുതരാം ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇത് ഒരു ഡിവിഷന് ഒരു വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ഏകദേശം 3 3 വോൾട്ട് വരെ ഉയർന്ന തോതിൽ പോകുന്നു ഇതിന് ഏകദേശം 3 വോൾട്ട് പ്ലസിലേക്ക് പോകാൻ കഴിയും ഒപ്പം ഈ 1 7 1 8 മില്ലിസെക്കൻഡിൽ അങ്ങനെ തന്നെ കിട്ടും ഈ സമയത്തിന് ശേഷം ഇവിടെ നിന്ന് ഈ സമയം വരെ മൈക്രോകൺട്രോളർ ബൂട്ട് ചെയ്യുന്നതിന് മതിയായതാണ് ഒരു ഡാറ്റ പാക്കറ്റിന്റെ പ്രക്ഷേപണം നടത്താനും ക്രിസ്റ്റൽ ഓസിലേറ്റർ വേണം ഇത് മൈക്രോസെക്കൻഡിൽ സ്ഥിരമായ ഒരു ക്ലോക്ക് നൽകും മൈക്രോ കൺട്രോളർ ഒരു ക്ലോക്ക് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുകയും വേഗത്തിൽ ശാന്തമായിരിക്കുകയും വേണം എഡിസി പരിവർത്തന സമയം വളരെ വേഗത്തിലായിരിക്കണം കൂടാതെ നിങ്ങൾക്ക് ബിഎൽഇ ലിങ്കിലേക്ക് ദ്രുത ആശയവിനിമയം നടത്താനും എസ്പിഐ ഐ 2 സി കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളെ അപേക്ഷിച്ച് ബിഎൽഇ ചെയ്യാനും ഒരു ഡാറ്റ പാക്കറ്റിന്റെ പ്രക്ഷേപണം നടത്താനും കഴിയും ഇതാണ് വെല്ലുവിളി നിങ്ങൾക്ക് എമ്പഡഡ് സോഫ്റ്റ്വെയർ എഴുതാൻ കഴിയണം ഇത് നിശ്ചിത പരിമിതമായ സമയത്തിനുള്ളിൽ ഏകദേശം 1 7 മുതൽ 1 8 മില്ലിസെക്കൻഡ് അല്ലെങ്കിൽ 2 മില്ലിസെക്കൻഡിൽ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനുശേഷം കൂടുതൽ എനർജി ഉണ്ടാകില്ല അതിനാൽ നിങ്ങൾ പവർ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സോഫ്റ്റ്വെയർ കോഡ് മാജിക് ചെയ്യേണ്ടിവരും